സ്വാഗതം ഇത് അമ്പത്തിയെട്ടാം നമ്പർ ലക്ച്ചർ ആണ് നോൺ ഹോമോജീനിയസ് ലീനിയർ സമവാക്യങ്ങളുടെ സൊല്യൂഷനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും പ്രത്യേകിച്ചും പർട്ടിക്കുലർ ഇന്റഗ്രൽനെക്കുറിച്ചും പർട്ടിക്കുലർ ഇന്റഗ്രൽ വിലയിരുത്തുന്നതിനുള്ള സൊലൂഷൻ ടെക്നിക്കുകളും നമ്മൾ നോക്കും അവസാന ലക്ച്ചറിൽ കോൺസ്റ്റൻറ് കോയിഫിഷൻറ്കളോട് കൂടിയ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ കോംപ്ലിമെൻററി ഫംഗ്ഷൻ എങ്ങനെ നേടാമെന്ന് നമ്മൾ കണ്ടു തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് നമ്മൾ കോംപ്ലിമെൻററി ഫംഗ്ഷൻ കണ്ടെത്തേണ്ടതുണ്ട് അതോടൊപ്പം പർട്ടിക്കുലർ ഇന്റഗ്രലും കണ്ടെത്തേണ്ടതുണ്ട് ഇവയും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവ രണ്ടും കൂട്ടിചേർക്കുമ്പോൾ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ ജനറൽ സൊല്യൂഷൻ നമുക്ക് ലഭിക്കും ഇന്നത്തെ ലക്ച്ചറിൽ നൽകിയിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെന്നതിൽ ആയിരിക്കും നമ്മുടെ ശ്രദ്ധ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തെ എന്ന ഓപ്പറേറ്റർ ഫോമിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നത് ന്റെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള എന്നതിനെക്കുറിച്ച് മുമ്പത്തെ ലക്ച്ചറിൽ നമ്മൾ ചർച്ചചെയ്തിട്ടുണ്ട് ഈ സമവാക്യത്തിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽനെ അഥവാ സമവാക്യത്തിന്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനെ എന്ന് സൂചിപ്പിക്കുന്നു ഈ എന്നത് റിവേഴ്സ് ഓപ്പറേറ്റർ പോലെയാണ് സമവാക്യത്തിലേക്ക് നമ്മൾ ഇതിനെ ഗുണിച്ചാൽ സൊല്യൂഷൻ ഇവിടെ നേരിട്ട് എന്നായി ലഭിക്കും ഒരു ൻറെ ഫംഗ്ഷനിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നത് നമ്മൾ ഇവിടെ കാണും യെ ഇൻവേഴ്സ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നു കൂടാതെ ഓക്സിലറി സമവാക്യത്തിൻറെ റൂട്ടുകളുടെ അടിസ്ഥാനത്തിൽ യെ എന്ന രൂപത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് ഇതിനകം നമ്മൾ ചർച്ച ചെയ്തു ആയതിനാൽ പർട്ടിക്കുലർ ഇന്റഗ്രൽനെ എന്ന് എഴുതാം അതിൽ എന്നത് കളുടെ പ്രോഡക്ട് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽനെ എന്ന് എഴുതാം നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടെത്തുന്നതിനുള്ള പൊതുവായ മാർഗ്ഗമാണ് പിന്നീട് നമ്മൾ ന്റെ ചില പ്രത്യേക ഫോമുകളിലേക്ക് പോകും ചില നേരിട്ടുള്ള മൂല്യനിർണ്ണയ രീതികളുമുണ്ട് അവ പിന്നീട് ചർച്ചചെയ്യപ്പെടും ഇവിടെ നമുക്ക് എന്ന ഒരു റിസൾട്ട് ഉണ്ട് ഇന്റഗ്രലിന്റെ അടിസ്ഥാനത്തിൽ ഈ റിസൾട്ട് നമുക്ക് എങ്ങനെ ലഭിക്കുന്നുവെന്ന് കാണാൻ ഇവിടെ എന്ന് നൽകുക യഥാർത്ഥത്തിൽ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്യും എന്ന് അനുമാനിച്ചതിൽ നിന്ന് നമുക്ക് എന്ന് എഴുതാം അഥവാ ഇതിൽനിന്ന് എന്ന് ലഭിക്കുന്നു ഇതിൽ ഇവിടെ കോൺസ്റ്റൻറ് ഓഫ് ഇൻറെഗ്രേഷൻ പ്രധാനമല്ല നമുക്ക് ഈ കോൺസ്റ്റൻറ് ഓഫ് ഇൻറെഗ്രേഷൻ 0 ആയി സജ്ജീകരിക്കാൻ കഴിയും കാരണം നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെന്ന്ആണ് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ഈ കോൺസ്റ്റൻറ് ഓഫ് ഇൻറെഗ്രേഷൻ നമുക്ക് ആവശ്യമില്ല യുടെ ഏതൊരു മൂല്യത്തിനും അതൊരു സൊല്യൂഷൻ ആയിരിക്കും അതിനാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സൊലൂഷൻന്ന് വേണ്ടി തിരയുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എന്നത് 0 ആയി സജ്ജമാക്കാൻ കഴിയും അല്ലാതെ യുമായി തുടരുകയാണെങ്കിൽ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സമവാക്യത്തിൻറെ ജനറൽ സൊലൂഷൻ കണ്ടെത്തുന്നതിന് അവസാനം കോംപ്ലിമെൻററി ഫംഗ്ഷൻലേക്ക് ഈ പർട്ടിക്കുലർ ഇന്റഗ്രൽനെ ചേർക്കുന്ന സന്ദർഭത്തിൽ ഈ കോൺസ്റ്റൻറ് കോംപ്ലിമെൻററി ഫംഗ്ഷനിൽ പ്രത്യക്ഷപ്പെട്ട കോൺസ്റ്റൻറ്കളോടൊപ്പം ആയിരിക്കും അതിനാൽ ഇവിടെ ഇത് പ്രധാനപ്പെട്ടതല്ല നമുക്ക് തത്ത്വത്തിൽ ഏത് മൂല്യവും നൽകാം എന്നാൽ ഏറ്റവും ലളിതമായത് ഈ യ്ക്ക് 0 നൽകിക്കൊണ്ട് ആണ് അതിനാൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ എന്നാണ് ഈ കോൺസ്റ്റൻറ് 0 ആകുമ്പോൾ എന്ന പദം അപ്രത്യക്ഷമാകും അടിസ്ഥാനപരമായി നമുക്ക് ന്റെ മൂല്യം എന്ന് ലഭിക്കും പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടെത്തുന്നതിന് വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു പ്രധാന റിസൽട്ട് ആണിത് ഇത് നമുക്ക് ലഭിച്ചത് എന്ന ഇൻവേഴ്സ് ഓപ്പറേറ്റർ എന്ന ഫംഗ്ഷനിൽ പ്രയോഗിച്ചപ്പോൾ ആണ് അതിന്റെ മൂല്യം അല്ലാതെ മറ്റൊന്നുമല്ല ലളിതമായി എന്ന ഒരു കേസ് നമുക്ക് പരിഗണിക്കാം എന്നാണെങ്കിൽ ഈ റിസൽട്ട് എന്താണ് നിർദ്ദേശിക്കുന്നത് ഈ റിസൾട്ട് എന്നത് എന്നാകുന്നു നമുക്ക് കേവലം ഇന്റഗ്രൽ എന്ന് ലഭിക്കുന്നു ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണെന്ന് നമുക്കറിയാം അതിനാൽ ഒരു ഇന്റഗ്രൽ ഓപ്പറേറ്റർ പോലെയാണ് അതിനാൽ ഇത് കൃത്യമായി ആണ് അതുകൊണ്ട് എന്നത് അടിസ്ഥാനമാക്കിയുള്ള ന്റെ ഇന്റഗ്രൽ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ എന്നത് ഒഴികെയുള്ളതിനുള്ള ജനറൽ ഫോർമുലയാണ് അതിൻറെ മൂല്യം എന്നാണ് ഈ ലക്ച്ചറിൽ ഇത് വളരെ പ്രധാനമാണ് ഉദാഹരണത്തിനായി ഈ ഫോർമുല എന്ന സമവാക്യത്തിൻറെ സൊല്യൂഷൻ കാണാൻ ഉപയോഗിക്കുന്നു ആദ്യം നമുക്ക് കോംപ്ലിമെൻററി ഫംഗ്ഷൻ കണ്ടെത്തേണ്ടതുണ്ട് അതിനായി നമുക്ക് ഇവിടെ ഓക്സിലറി സമവാക്യം ആവശ്യമാണ് ഈ കേസിലെ ഓക്സിലറി സമവാക്യം ആയിരിക്കും കൂടാതെ നമുക്ക് അതിൻറെ റൂട്ടുകൾ എന്നീ കോംപ്ലക്സ് കൊഞ്ചുഗേറ്റുകൾ ആയി ലഭിക്കും തുടർന്ന് സൊല്യൂഷൻ എങ്ങനെ എഴുതാമെന്ന് നമ്മൾക്കറിയാം അത് എന്നാണ് സമവാക്യത്തിന്റെ വലതുഭാഗം 0 ആയി സജ്ജമാക്കുമ്പോൾ ലഭിക്കുന്ന ഹോമോജീനിയസ് സമവാക്യത്തിൻറെ സൊലൂഷൻ ആണത് അഥവാ അതിനെ കോംപ്ലിമെൻററി ഫംഗ്ഷൻ ആണെന്ന് പറയാം അതിനാൽ ആണ് കോംപ്ലിമെൻററി ഫംഗ്ഷൻ നമുക്ക് ജനറൽ സൊലൂഷൻ കണ്ടെത്തുന്നതിന് കോംപ്ലിമെൻററി ഫംഗ്ഷൻ ആവശ്യമാണ് അതോടൊപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ സൊലൂഷൻ കൂടി ആവശ്യമുണ്ട് ഈ പർട്ടിക്കുലർ സൊലൂഷൻ കണ്ടെത്തുന്നതിന് മുമ്പത്തെ സ്ലൈഡിൽ ചർച്ച ചെയ്ത ആശയം നമ്മൾ പ്രയോഗിക്കുന്നു അതിനായി എന്ന ഇൻ വേഴ്സ് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നു പർട്ടിക്കുലർ സൊലൂഷനെ എന്ന് എഴുതാം കാരണം or എന്നതിനായുള്ള ഫോർമുല നമുക്ക് അറിയാം നമ്മൾ ഇവിടെ ആദ്യത്തേത് പരിഗണിക്കുന്നു സമാനമായി രണ്ടാമത്തേത് എന്ന് ലഭിക്കുന്നു ഇവ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് എന്നു ലഭിക്കുന്നു So this is just the simplification of what we got here this അതിനാൽ ഇത് നമുക്ക് ഇവിടെ ലഭിച്ചതിന്റെ ലളിതവൽക്കരണം മാത്രമാണ് 1a2ln | cos ax | cos ax അതിനാൽ ജനറൽ സൊലൂഷൻ എഴുതുന്നതിന് നമ്മൾ മുമ്പ് വിലയിരുത്തിയ കോംപ്ലിമെൻററി ഫംഗ്ഷൻ ഇപ്പോൾ ലഭിച്ച പർട്ടിക്കുലർ സൊലൂഷൻഉമായി കൂട്ടിച്ചേർക്കുന്നു തുടർന്ന് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ ആയി എന്നു ലഭിക്കുന്നു ഇനി ന്റെ ചില പ്രത്യേക ഫോമുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും ഉദാഹരണത്തിന് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇന്റഗ്രൽ ഫോർമുലയുടെ സഹായത്തോടെ ഇത് വിലയിരുത്തുന്നതിന് പകരം ഈ ഫോർമുലകൾ ഓർമ്മിക്കുകയും നേരിട്ട് അവ ഉപയോഗിക്കുകയും ചെയ്യും മാത്രമല്ല വലതുവശത്ത് ഇത്തരം ലളിതമായ ഫംഗ്ഷനുകൾ ഉള്ളപ്പോൾ ഇത്തരത്തിൽ വിലയിരുത്തുന്നത് വളരെ എളുപ്പമായിരിക്കും ആദ്യം നമ്മൾ വലതുവശത്ത് എന്ന പ്രത്യേക ഫംഗ്ഷൻ ആയിരിക്കുമ്പോഴുള്ളതാണ് ഡിറൈവ് ചെയ്യുന്നത് അതിനായി നമുക്ക് ഒരു കോൺസ്റ്റൻഡ് ആണെങ്കിൽ എന്ന റിസൾട്ട് ആവശ്യമാണ് അതിനർത്ഥം ഈ എന്ന ഓപ്പറേറ്റർ ൽ പ്രയോഗിക്കുമ്പോൾ അത് എന്നാകുന്നു അതായത് യെ എന്ന് മാറ്റി എഴുതുന്നു ഇത് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്നാൽ ൻറെ ഡെറിവേറ്റീവ് എന്നാണ് അർത്ഥം അത് നെ കൊണ്ട് ഗുണിച്ചത് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ ഡെറിവേറ്റീവ് ഒരിക്കൽ ഇവിടെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് യെ ഉപയോഗിച്ച് മാറ്റിയെഴുതുന്നു എന്നാണ് ഇതേകാര്യം രണ്ട് തവണ ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്ക് എന്നു ലഭിക്കും നിങ്ങൾ ഇത് തുടരുകയാണെങ്കിൽ ജനറൽ ആയിട്ട് ലഭിക്കും അതിനാൽ നമുക്ക് എന്ന് ഉള്ളപ്പോൾ ഇവിടെയുള്ള മുഴുവൻ പദങ്ങളിലും എല്ലാം എന്ന് മാറ്റി എഴുതുന്നതിലൂടെ എന്നു ലഭിക്കുന്നു അതോടൊപ്പം അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നു അതിനാൽ വലതുവശത്തെ എന്നത് എന്ന പ്രത്യേക ഫംഗ്ഷൻ ആയിരിക്കുമ്പോൾ നമുക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു ജനറൽ റിസൾട്ട് ആണ് എന്നത് ഈ റിസൾട്ട് കൊണ്ട് നമുക്ക് വലതുവശത്തെ എന്നത് എന്ന ഫംഗ്ഷൻ ആയിരിക്കുമ്പോൾ ഉള്ള പ്രത്യേക ഫോമിന്റെ ആദ്യ ഫലം നേടാനാകും എന്നത് എന്ന ഫോം ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടെത്തുന്നതിനുള്ള നമ്മുടെ ഫോർമുല എന്തായിരിക്കും ഉദാഹരണത്തിന് നമുക്ക് എന്ന ഡിഫറൻഷ്യൽ സമവാക്യം ഉണ്ട് എന്ന് നമുക്കറിയാം മുകളിലുള്ള സമവാക്യത്തിന്റെ രണ്ട് വശങ്ങളും കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു നമുക്ക് എന്ന് ലഭിക്കും എങ്കിൽ നമുക്ക് കൊണ്ട് വിഭജിക്കുമ്പോൾ എന്ന് ലഭിക്കുന്നു എന്നാണെങ്കിൽ എന്നത് യുടെ ഒരു ഘടകം ആയിരിക്കും എങ്കിൽ എന്ന് എഴുതാം അപ്പോൾ കാരണം എന്നു ലഭിക്കുന്നു വലതുവശത്തെ എന്ന ഫോം ആണെങ്കിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടെത്തുന്നതിനുള്ള ഷോർട്ട് മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നു നോക്കാം എന്നെഴുതുന്നു എങ്കിൽ ആണെങ്കിൽ യ്ക്ക് എന്ന തരത്തിലുള്ള ഒരു ഘടകം ഉണ്ടായിരിക്കും തുടർന്ന് എന്നെഴുതുന്നു നമ്മൾ ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ നോക്കുന്നു ആദ്യത്തേത് എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ കണ്ടെത്തുക എന്നതാണ് ആദ്യം കോംപ്ലിമെൻററി ഫംഗ്ഷൻ കണ്ടെത്തുന്നതിനായി എന്ന ഓക്സിലറി സമവാക്യം നമ്മൾ എഴുതുന്നു ഇവിടെ റൂട്ടുകൾ 1 ഉം 2 ഉം ആണ് ഇവ ഉള്ളതിനാൽ നമുക്ക് കോംപ്ലിമെൻററി ഫംഗ്ഷൻ എന്ന് എഴുതാം പർട്ടിക്കുലർ ഇന്റഗ്രൽ ലഭിക്കുന്നതിനായി നമ്മൾ ചർച്ചചെയ്തതിലേക്ക് പോകുന്നു ഇവിടെ എന്നതിൽ യ്ക്ക് പകരം 3 മാറ്റി നൽകുന്നു അപ്പോൾ നമുക്ക് എന്ന പർട്ടിക്കുലർ ഇന്റഗ്രൽ ലഭിക്കുന്നു ഇവിടെ നൽകിയിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണിത് ഈ പർട്ടിക്കുലർ സൊലൂഷൻഉം കോംപ്ലിമെൻററി ഫംഗ്ഷനും കൂട്ടിച്ചേർത്താൽ ഈ ഹോമോജീനിയസ് സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ എന്ന് നമുക്ക് ലഭിക്കും അടുത്ത പ്രോബ്ലത്തിൽ എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ പർട്ടിക്കുലർ സൊലൂഷൻ നമുക്ക് കാണാം ഇവിടെ പർട്ടിക്കുലർ സൊലൂഷൻ എന്നായിരിക്കും അതിനാൽ അടിസ്ഥാനപരമായി നമുക്ക് D2 D 5y 3 ഉണ്ട് അതിനാൽ ഇത് ലളിതമായി നൽകും അടുത്ത പ്രോബ്ലം ഇന്നത്തെ അവസാനത്തേതാണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈ സമവാക്യത്തിന്റെ ഒരു പർട്ടിക്കുലർ ഇന്റഗ്രൽ അതായത് ഒരു പ്രത്യേക സൊലൂഷൻ ആണിത് നമ്മൾ കൺക്ലൂഷൻലേക്ക് വരുന്നു പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്താണെന്ന് നമ്മൾ കണ്ടു ഒരു പ്രത്യേക ഷോർട്ട്കട്ട് നമുക്കില്ലാത്തപ്പോൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടെത്തുന്നതിന് വളരെ ഉപകാരപ്രദമായ ജനറൽ ഫോർമുലയും നമ്മൾ കണ്ടു ഇതിലെ ഇന്റഗ്രൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നിടത്തോളം കാലം ഏത് സാഹചര്യത്തിലും ഇത് ഉപയോഗിക്കാം കൂടാതെ പ്രത്യേക ഫോമും ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ എന്നതിൽ നമുക്ക് യെ എന്ന് പകരം വയ്ക്കാമെന്നായിരുന്നു നിയമം 0 ആണെങ്കിൽ നമുക്ക് തീർച്ചയായും എന്ന തരത്തിലുള്ള ഘടകമുണ്ട് എന്നും എന്ന് എളുപ്പത്തിൽ വിലയിരുത്താം എന്നും നമ്മൾ കണ്ടു ലക്ച്ചറുകൾ തയ്യാറാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി